ഈ പ്രഭാഷണത്തിൽ ലേക്ക് സ്വാഗതം കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ സോഫ്റ്റ്വെയർ വികസന ജീവിത ചക്രത്തെ കുറിച്ച് ചർച്ച ചെയ്തു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ജീവിത ചക്രത്തിൽ ആശയത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രോജക്ട് വിവിധ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു ശാസ്ത്രജ്ഞർ ഡെവലപ്മെൻറ് ജീവിതചക്രം പ്രധാനമായും നിർവഹിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ക്രമത്തെയും നിർവചിക്കുന്നു രാഷ്ട്രീയ വികസന സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധജനന്യമായ ഒരു ആശയമുണ്ട് എന്നാൽ വിവിധ പ്രോജക്ടുകൾ മാനേജ്മെൻറ് ജീവിത ചക്രങ്ങൾ ഈ പ്രവർത്തനങ്ങളെ വ്യത്യസ്ത രീതികളിൽ രൂപപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണാം ചില ജനപ്രിയ ജീവിതചക്ര മോഡൽ കൾ നോക്കാം ഈ പ്രഭാഷണത്തിൽ വാട്ടർഫാൾ മോഡൽ വി മോഡൽ എവൊല്യൂഷണറി മോഡൽ പ്രൊട്ടോ ടൈപ്പിംഗ് മോഡൽ എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും പ്രോജക്ട് മാനേജറിൻറെ ജീവിതചക്രം വളരെ പ്രധാനമാണ് കാരണം ജീവിത ചക്രത്തെ അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർ പ്രോജക്ടിൻറെ പുരോഗതി അറിയാൻ കഴിയും കാരണം ജീവിത ചക്രത്തിൽ വിവിധ മൈൽസ്റ്റോണ്സ് ഉണ്ട് മൈൽസ്റ്റോണ്സുകൾ നിറവേറ്റുന്നത് അനുസരിച്ച് പ്രോജക്ട് മാനേജർക്ക് എത്രത്തോളം പുരോഗതി കൈവരിച്ചു അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് പ്രോജക്ട് എന്ന് പറയാൻ കഴിയും ഒരു ജീവിത ചക്ര മോഡൽ ഇല്ലാതെ പ്രോജക്ട് മാനേജർ വികലാംഗനാണ് പ്രോജക്ട് നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നത് പ്രോജക്ട് മാനേജർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എത്ര ജോലികൾ അവശേഷിക്കുന്നു എന്ന് അറിയില്ല അതിനാൽ പദ്ധതി വൈകും ചെലവ് ഉയരുന്നു അതിനാൽ നിസ്സാരമല്ലാത്ത ഓരോ പ്രോജക്റ്റും പ്രോജക്ട് മാനേജർ അനുയോജ്യമായ ഒരു ജീവിതചക്രം മോഡൽ ഉപയോഗിക്കുന്നു ഒപ്പം ഡെവലൊപ്മെന്റ് ടീം അത് പിൻതുടരുന്നു ഒരു ജീവിതചക്രം മോഡൽ യില്ലാതെ സാധാരണയായി 99 കംപ്ലീറ്റ് സിൻഡ്രോം സംഭവിക്കുന്നു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എത്രത്തോളം പൂർത്തിയാക്കി എന്ന് ടീം അംഗങ്ങളോട് ചോദിക്കുക അല്ലാതെ പ്രോജക്റ്റിൻറെ പുരോഗതി കണ്ടെത്താൻ ഇവിടെ പ്രോജക്ട് മാനേജർക്ക് മാർഗ്ഗമില്ല സാധാരണഗതിയിൽ ഡെവലൊപ്മെൻറ് ടീം വളരെ ഉത്സാഹം ഉള്ളവരാണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അവർ ശുഭാപ്തി വിശ്വാസത്തോടെ ഉത്തരം നൽകുന്നു ഞങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അതിനാൽ പ്രോജക്ട് പൂർത്തിയാകാൻ പോവുകയാണെന്ന് പ്രോജക്ട് മാനേജർ കരുതുന്നു പക്ഷേ അത് സത്യത്തിൽ നിന്ന് വളരെ അകലെയാണ് ജോലി ഏകദേശം പൂർത്തിയായെന്നും 99 കംപ്ലീറ്റ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന പ്രോജക്റ്റ് മാനേജർ പദം കേൾക്കുമ്പോഴും കൂടുതൽ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും എത്രത്തോളം പുരോഗമിച്ച എന്ന ടീം അംഗങ്ങളുടെ അഭിപ്രായം ചോദിക്കുക അല്ലാതെ പ്രോജക്റ്റ് പുരോഗതി ട്രാക്ക് ചെയ്യാൻ പ്രോജക്ട് മാനേജർക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത സമയത്താണ് ഇത് സംഭവിക്കുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ് ജീവിതചക്രം നമ്മൾ ചർച്ചചെയ്യുന്ന വേദിയിൽ പ്രോജക്ട് മാനേജർ വിവിധ മൈൽസ്റ്റോൺസും ഘട്ട പൂർത്തീകരണവും നടത്താൻ പ്രോജക്റ്റ് മാനേജർക്ക് പ്രോജക്റ്റിനെ പുരോഗതിയെ കൂടുതൽ അർത്ഥവത്തായി അറിയാൻ സാധിക്കും പ്രോജക്ട് പുരോഗമിക്കുമ്പോൾ ജീവിതചക്രം മോഡൽ നോക്കുന്നതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു അടിസ്ഥാന ആശയം വിവിധ ഡെലിവറി കൾ നിർമ്മിക്കുന്നു വർക്കിംഗ് പ്രോഗ്രാം യഥാർത്ഥത്തിൽ അല്ലാത്ത ഒരു പ്രോജക്റ്റിനെ ഡെലിവറി ആണെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഒരു മിഥ്യയാണ് ധാരാളമുണ്ട് ചോദ്യ പുരോഗമിക്കുമ്പോൾ ഉല്പാദിക്കപ്പെടുന്ന ഡെലിവറുബുകൾ ഇവയാണ് വികസനത്തിന് എല്ലാ വശങ്ങളുടെയും ഡോക്യൂമെന്റഷൻ ഉദാഹരണത്തിന് സ്പെസിഫിക്കേഷൻ ഡിസൈൻ തുടങ്ങിയവ വാട്ടർഫാൾ മോഡൽ വി മോഡൽ എവൊല്യൂഷണറി മോഡൽ പ്രോട്ടോടൈപ്പിംഗ് ഒരു ഒരു സ്പൈറൽ മോഡൽ എന്നിവയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഇതിനെ നമ്മൾ പരമ്പരാഗത മോഡൽ യായി വിളിക്കും പ്രോജക്ട് ആദ്യം മുതൽ ആരംഭിക്കുന്ന ഒരു ഉൽപ്പന്ന വികസന പദ്ധതിയാണ് ആണ് എന്നാൽ സേവന തരത്തിലുള്ള പ്രോജക്ടുകൾകായി സാധാരണയായി ചടുലമായ മോഡൽ കൾ ഉപയോഗിക്കുന്നു ഇതിൽ നമ്മളാദ്യം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വാട്ടർഫാൾ മോഡൽ വി മോഡൽ എവൊല്യൂഷണറി മോഡൽ പ്രോട്ടോടൈപിങ് സ്പൈറൽ മോഡൽ ഈ മോഡലുകളുടെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തും എന്തുകൊണ്ടാണ് അവ സേവന തരത്തിലുള്ള പ്രോജക്റ്റുകൾ അനുയോജ്യമല്ലാത്തത് കൂടാതെ ചടുലമായ മോഡലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും എങ്ങനെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നു എന്ന് നമ്മൾ കാണും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ ജീവിതചക്രം സോഫ്റ്റ്വെയറി ൻറെ വികസന സമയത്ത് ഒരു ഘട്ടമാണ് അവബോധ ജന്യമായ ഓരോ സോഫ്റ്റ്വെയറിന് ഒരു സാധ്യത പഠനം ഉണ്ട് ഈ സമയത്ത് ഈ പ്രോജക്ട് എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ആവശ്യകത വിശകലനവും സവിശേഷതയും ഡിസൈൻ കോഡിങ് ടെസ്റ്റിംഗ് മെയിൻറനൻസ് എന്നിവ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനാൽ ഓരോ സോഫ്റ്റ്വെയറും സാധ്യതാപഠന ആവശ്യകത കളുടെ വിശകലനവും സവിശേഷതയും ഡിസൈൻ കോഡിങ് ടെസ്റ്റിംഗ് എന്നിവയ്ക്ക് അവ ബോധപൂർവം വിധേയമാകുന്ന ഘട്ടങ്ങൾ ആണിവ സോഫ്റ്റ്വെയർ വികസനത്തിന് അവബോധ ജന്യമായ മോഡലിന് ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ വളരെ കൃത്യമായി യോജിക്കുന്നു ഇവിടെ പ്രവർത്തനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടക്കുന്നു തുടർന്ന് ആവശ്യകത കളുടെ വിശകലനവും സ്പെസിഫിക്കേഷൻ ജോലിയും ഏറ്റെടുക്കുന്നു അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡിസൈൻ എടുത്ത് കോഡിങ് യൂണിറ്റ് പരിശോധനയും നടത്തുന്നു അടുത്തതായി സംയോജനവും സിസ്റ്റം പരിശോധനയും ഏറ്റെടുക്കുകയും ഒടുവിൽ വിൽ അറ്റകുറ്റപ്പണി ഏറ്റെടുക്കുകയും ചെയ്യുന്നു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് അവബോധ്യമായ മോഡലിന് ഇത് വളരെ അനുയോജ്യമാണ് ഇതിനെ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ എന്ന് വിളിക്കുന്നു കാരണം ഈ മോഡലിനെ അടിസ്ഥാനമാക്കി മറ്റെല്ലാ ജീവിതചക്രം മോഡലുകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ക്ലാസിക്കൽ മോഡൽ മറ്റെല്ലാം മോഡലുകളും ഈ മോഡലിൻറെ ഡെറിവേറ്റീവ് കളാണ് അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത സോഫ്റ്റ്വെയർ വികസനത്തിന് ആശയപരമായ മോഡൽ അനുസരിച്ചണിത് ഒരു ഡയഗ്രമാറ്റിക് രൂപത്തിൽ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡലിനെ പ്രതിനിധീകരിക്കുന്നു എങ്കിൽ വിവിധഘട്ടങ്ങളെ ഇവിടെ പ്രതിനിധീകരിക്കുന്നത് സാധ്യത പഠനം ആവശ്യകത വിശകലന സവിശേഷത രൂപകൽപന കോഡിംഗ് പരിശോധന പരിപാലനം എന്നിവയാണ് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു പരിവർത്തനം ഉണ്ട് നമ്മൾ നോക്കിയാൽ ഇത് ഒരു വാട്ടർഫാൾ മോഡൽ പോലെ കാണപ്പെടുന്നു അതിൽ നിന്ന് വാട്ടർഫാൾ മോഡൽ എന്ന മോഡൽ വരുന്നു ഇതാണ് ലളിതവും അവബോധ ജന്യമായ മോഡൽ ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡലിൽ എല്ലാ ഘട്ടങ്ങളിൽ ഏത് ഘട്ടത്തിലാണ് കൂടുതൽ ശ്രമം നടത്തുന്നത് എല്ലാ ഘട്ടങ്ങളും നോക്കിയാൽ സാധ്യത പഠനത്തിനും പരിശോധനയ്ക്കുംഇടയിലുള്ള ഘട്ടങ്ങളെ വികസന ഘട്ടങ്ങൾ എന്ന് വിളിക്കുന്നു തുടർന്ന് ഇന്ന് നമുക്ക് അ മെയിൻറനൻസ് ഘട്ടത്തെ വികസന ഘട്ടങ്ങൾ എന്ന് വിളിക്കുന്നു കാരണം ഇവിടെ ഉൽപ്പന്ന വികസിപ്പിക്കുകയും ഉപഭോക്താവിന് കൈമാറുകയും അതിനുശേഷം പരിപാലന ഘട്ടം ആരംഭിക്കുന്നു എല്ലാ ഘട്ടങ്ങളിലും വികസന ഘട്ടങ്ങളും പരിപാലന ഘട്ടവും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അറ്റകുറ്റപ്പണി പരമാവധി പരിശ്രമിക്കുന്നു പക്ഷേ വികസന ഘട്ടങ്ങൾഇൽ ടെസ്റ്റിംഗ് ഘട്ടം പരമാവധി പരിശ്രമിക്കുന്നു നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് ശരിക്കും പരമാവധി ശ്രമം നടത്തുന്ന പരീക്ഷണഘട്ടം ആണോ ഇതിനുത്തരം ഒരു വാണിജ്യ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാണുക ഇത് ഒരു വിദ്യാർത്ഥി പ്രോജക്ട് അല്ല പ്രൊജക്റ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി നിയമനം വിദ്യാർത്ഥി കുറച്ച് ഇൻപുട്ടുകൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ പരിശോധിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്യുന്നു അതേ സമയം നമ്മൾ ഒരു വാണിജ്യ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അവിടെ ഓർഗനൈസേഷൻ പേര് അപകടത്തിൽ ആയതിനാൽ ഗുണനിലവാരം നിലനിർത്തേണ്ടത് ആവശ്യകയെകുറിച്ചു വിപുലമായി പരിശോധിക്കേണ്ടതുണ്ട് ഉപയോക്താക്കൾക്ക് ബഗ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ നൽകാൻ കഴിയില്ല അതിനാൽ ലാൽ നിസ്സാരമല്ലാത്ത ഓരോ വാണിജ്യ സോഫ്റ്റ്വെയർഇൻ ഉള്ള പരമാവധി ശ്രമം പരീക്ഷണഘട്ടം ഉപയോഗിക്കുന്നു നമ്മൾ ശ്രമത്തെ പ്രതിനിധീകരിക്കുന്നു എങ്കിൽ ഒരു ഡയഗ്രാം ഇൻറെ രൂപം അറ്റകുറ്റപ്പണി പരമാവധി പരിശ്രമിക്കുന്നു എന്നാൽ മറ്റെല്ലാ ഘട്ടങ്ങളിലും വികസന ഘട്ടങ്ങളാണ് പരിശോധനക്ക് കൂടുതൽ പരിശ്രമം വേണ്ടതുണ്ട് അതിനുശേഷം വരുന്നതാണ്കോഡിങ് ഡിസൈൻ ആവശ്യകത സവിശേഷത മിക്ക ഓർഗനൈസഷനുകളും അവർ പിന്തുടരുന്ന സോഫ്റ്റ്വെയർ ജീവിതചക്രം മോഡൽ രേഖപ്പെടുത്തുന്നു അവ എല്ലാ ഘട്ടങ്ങളും ഘട്ടങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും തിരിച്ചറിയുക മാത്രമല്ല ഒരു കെട്ടിടത്തിന് അവസാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ടപുട്ടുകൾ അല്ലെങ്കിൽ ഡെലിവറികൾ എന്തൊക്കെയാണെന്ന് അവ തിരിച്ചറിയുന്നു ഈ ഘട്ടത്തിൽ ലേക്കുള്ള പ്രവേശന എക്സിറ്റ് മാനദണ്ഡങ്ങൾ എന്താണെന്നും വിവിധ ഘട്ടങ്ങളിലായി ഡെവലപ്പർമാർ ഉപയോഗിക്കേണ്ട രീതി ശാസ്ത്രങ്ങൾ എന്താണെന്നുംഇത് ഒരു പ്രോസസ്സ് മോഡൽ പ്രമാണം കൂടാതെ എല്ലാ ടീം അംഗങ്ങൾക്കും ഒരു പ്രധാന റഫറൻസ് പുസ്തകമാണ് ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ ഇത് വളരെ അവബോധ ജന്യമായ മോഡൽ ആണെന്നും മറ്റും മോഡലുകൾ ഈ മോഡലിന്റെ ഡെറിവേ റ്റുകൾ ആണെന്നും വിവിധ ഘട്ടങ്ങളിൽ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നവികസന രീതിശാസ്ത്രം ആണെന്നും നമ്മൾ പറഞ്ഞു ഇവയെല്ലാം ഡെവലപ്പർമാർക്ക് നൽകിയ പ്രോസസ് മോഡൽ പുസ്തകത്തിൻറെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനു മുമ്പ് അവർ ഇത് നന്നായി മനസ്സിലാക്കണം വാട്ടർഫാൾ മോഡലിനു ആദ്യത്തെ പ്രവർത്തനം സാധ്യത പഠനമാണ് സാധ്യതാ പഠനം നടത്തേണ്ടത് ഇവിടെ പ്രോജക്റ്റ് മാനേജർ ആണ് പ്രോജക്ട് പ്രായോഗികമാണോ എന്ന് പ്രോജക്ട് മാനേജർ തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഇത് വികസനത്തിന് ഏറ്റെടുക്കാൻ കഴിയും കൂടാതെ പ്രോജക്ട് മാനേജർക്ക് ആശങ്ക ഉണ്ടാക്കാന്ന മൂന്നു തരത്തിലുള്ള സാധ്യതകളുണ്ട് പ്രോജക്റ്റ് മാനേജർക്ക് ആശങ്കയുടെ മൂന്ന് അളവുകൾ അല്ലെങ്കിൽ മൂന്നുതരത്തിലുള്ള സാധ്യതകളുണ്ട് ആദ്യത്തേത് ഡെവലൊപ്മെന്റ് ടീമിനു പദ്ധതി ഏറ്റെടുക്കാനുള്ള കഴിവ് ഉണ്ടോയെന്ന് എന്ന സാങ്കേതിക സാധ്യതയാണ് ഇതിനായി പ്രോജക്ട് മാനേജർ ഏറ്റെടുക്കേണ്ട വികസനത്തിന് വിവിധ വശങ്ങൾ മനസ്സിലാക്കുകയും തുടർന്ന് ഈ പ്രോജക്ട് സാങ്കേതികമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് തന്നെ പക്കലുള്ള ടീമിനെ വിലയിരുത്തുകയും വേണം സാമ്പത്തിക സാധ്യതയാണ് സാധ്യതയുടെ മറ്റൊരു പ്രധാന മാനം ലഭ്യമാകുന്ന ബജറ്റ് പദ്ധതി നടപ്പിലാക്കാൻ ലാഭകരമായിരിക്കും എന്നത് ഇതിന് കോസ്റ്റ് ബെനിഫിറ്റ് സാധ്യത എന്നും വിളിക്കുന്നു മൂന്നാമത്തെ അളവ് ഷെഡ്യൂൾ സാധ്യതയാണ് ആ സമയത്തേക്ക് ഉപഭോക്താവ് സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ട് ആഴ്ചക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഉപഭോക്താവ് ആഗ്രഹിക്കുന്നുണ്ടോ കുറഞ്ഞത് അത് മൂന്ന് എങ്കിലും ആവശ്യമുള്ള പ്രോജക്റ്റ് മാനേജർ കണക്കാക്കുന്നു ഉണ്ടോ എന്ന് പ്രോജക്ട് മാനേജർ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് കണക്കാക്കുന്നു ഇത് പ്രായോഗിക ഷെഡ്യൂൾ തിരിച്ചുള്ള അതല്ലെന്ന് മാസങ്ങളും പ്രോജക്ട് മാനേജർ പറയും എല്ലാ മൂന്നു സാധ്യതകളും തൃപ്തിപ്പെടുംപോൾ മാത്രമേ പ്രോജക്ട് ഏറ്റെടുക്കാൻ പ്രോജക്റ്റ് മാനേജർ സമ്മതിക്കുന്നുള്ളൂ സാമ്പത്തിക സാധ്യതയിൽ ജോലി നിർവഹിക്കുന്നത് പ്രതിഫലമാണോ സാങ്കേതികമായി പ്രായോഗികമാണോ എന്ന് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പരിഗണിക്കപ്പെടുന്നു ഇതിനായി പ്രോജക്ട് മാനേജർ ഉപഭോക്താവിന് എന്താണ് ചെയ്യേണ്ടതെന്നും ഉപഭോക്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കുന്നു സോഫ്റ്റ്വെയറിൻറെ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ ഡാറ്റയിൽ ആവശ്യമായ പ്രോസസ്സിംഗ് സൃഷിടിക്കേണ്ട ഔട്ട്പുട്ട് കൂടാതെ എത്ര ഡെവലപ്പര്മാര്ക്ക് ഏത് സമയത്തേക്ക് പ്രവർത്തിക്കണമെന്ന് പ്രോജക്ട് മാനേജർ തിരിച്ചറിയുന്നു കൂടാതെ പ്രോജക്ട് മാനേജർ പ്രോജക്ട് വികസിപ്പിക്കുന്നത്തിനുള്ള ചെലവ്തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രോജക്ടിന്റെ സ്പോൺസർ അല്ലെങ്കിൽ ഉപഭോക്താവ് ബജറ്റ്നൽകുകയും ചെയ്യുന്നു അതിൻറെ അടിസ്ഥാനത്തിൽ പ്രോജക്ട് മാനേജർ ഇത് സാമ്പത്തികമായി പ്രോയോജനകരമാണെന്നും പ്രോജക്ടിൻറെ ഭാഗമായി ആവശ്യമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർ അത് സാങ്കേതികമായി പ്രയോഗികമാണെന്ന്തിരിച്ചറിയുകകയും പ്രോജക്ട് മാനേജർ ഏകദേശം എടുക്കുന്ന സമയത്തെ തിരിച്ചറിയുകയും അത് അടിസ്ഥാനമാക്കി സാധ്യമായ ഷെഡ്യൂൾ തിരിച്ചുള്ളതായിരിക്കും സാധ്യതാ പഠനം നടത്താൻ പ്രോജക്റ്റ് മാനേജർ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കേസ് പഠനം മാത്രം കാരണം ഇത് ഒരു പ്രോജക്ടിനായി സാധ്യത പഠനം നടത്തുന്നതിന് പ്രോജക്ട് മാനേജർക്ക് ഒരു പ്രധാന പ്രവർത്തനമാണ് കോൾ ഫീൽഡ് ലിമിറ്റഡ്നായുള്ള പ്രത്യേക പ്രൊവിഡൻറ് പദ്ധതിയാണിത് കൽക്കരി ഖനന കമ്പനിയാണ് കോൾ ഫീൽഡ് ലിമിറ്റഡ് ഖനനം ഒരു അപകടകരമായ തൊഴിലാണ് ഖനി തൊഴിലാളികൾക്ക് ലഭ്യമായ സാധാരണ പ്രോവിഡൻറ് ഫണ്ടിന് പുറമേ ഒരു പ്രത്യേക പ്രോവിഡൻറ് ഫണ്ട് കമ്പനി നിർദ്ദേശിക്കുന്നു ഇതിനായി അവർ ബിഡ്ഡുകളെയും പ്രൊജക്റ്റ് മാനേജരെയും കമ്പനി സന്ദർശിച്ച് കമ്പനിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു കൽക്കരിപ്പാടത്തിൽ പരിമിതപ്പെടുത്തിയ ഇട്ടുള്ള ജീവനക്കാരുടെ എണ്ണം പതിനായിരം കവിയുമെന്ന് വരാണ് ക്യാഷുൽ തൊഴിലാളികളിൽ നിന്നും ഖനനം അപകടകരമായ തൊഴിൽ ആയതിനാൽ അപകടങ്ങൾ വളരെ ഉയർന്നതാണ് എന്നും അവർ കണ്ടെത്തി ഒരു പ്രൊവിഡൻ ഫണ്ട് സ്കീം ഉണ്ടെങ്കിലും സെറ്റിൽമെൻറ് സമയം വളരെ ഉയർന്നതാണ് ആണ് കൂടാതെ ഒരു പ്രത്യേക പ്രൊവിഡൻറ് ഫണ്ട് സ്കീമിൻറെ ആവശ്യകത യുണ്ട് അവിടെ ഫണ്ട് ഉടനടി വിതരണം ചെയ്യാൻ കഴിയും ഇവിടെ മാനേജർ ആദ്യം കമ്പനിയുടെ പ്രധാന ഓഫീസ് സന്ദർശിക്കുന്നു ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നു ഒരു പ്രത്യേക ദിവസത്തേക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറിച്ചും സംഭാവനയും കുറിച്ചും ഡാറ്റ ചെയ്യുന്ന വിവിധ മൈൻ സൈറ്റുകൾകൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു സ്പെഷ്യൽ പ്രൊവിഡൻസ് ഫണ്ട് സ്കീമിലേക്കു അവർ ആ ദിവസം ഉണ്ടാക്കുന്നു അതിനാൽ പ്രോജക്റ്റ് മാനേജർ ചില മൈൻ സൈറ്റുകൾ സന്ദർശിക്കുകയും ഇൻപുട്ട് ചെയ്യേണ്ട ഡാറ്റ എത്ര ഡാറ്റ ഫോർമാറ്റ് മുതലായവ കണ്ടെത്തുകയും തുടർന്ന് ഇതര പരിഹാരങ്ങൾ നിർദേശിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് മൈൻ സൈറ്റുകളിൽ പ്രാദേശിക ഡാറ്റാബേസ് കൾ ഉണ്ടായിരിക്കാം ഇത് കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ സെൻട്രൽ ഡാറ്റാബേസ് ലേക്ക് ആനുകാലികമായി അപ്ലോഡ് ചെയ്യപ്പെടും കൂടാതെ പ്രത്യേക പ്രൊവിഡൻ ഫണ്ട് സ്കീമിനായി ക്ലെയിമുകൾ ഉള്ളപ്പോൾ സെറ്റിൽമെൻറ് നടത്തും പക്ഷേ തൽക്ഷണം ക്ലെയിമുകൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാലതാമസം ഉണ്ടാകും എന്ന് ഇതിൽ പ്രോജക്ട് മാനേജർ കണ്ടെത്തുന്നു പക്ഷേ മറ്റൊരു പരിഹാരം പ്രാദേശികമായി സൈറ്റുകൾ മാത്രമേ ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ മാത്രമല്ല ഇവ ഉടൻതന്നെ മൈനിന്റെ ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ഖനികളിൽ ഇതിൽ പ്രാദേശിക ഡാറ്റാബേസ്കൾ ഒന്നുമില്ല പക്ഷേ ഇവ കമ്പനിയുടെ പ്രധാന ഓഫീസിലെ സെർവറിൽ ഡാറ്റ ഉടനടി അപ്ഡേറ്റ് ചെയ്യുന്ന ഡാറ്റാ എൻട്രി സ്റ്റേഷനുകൾ മാത്രമാണ് പക്ഷേ ഇവിടെ പ്രശ്നം കാരണം വളരെ വിശ്വസനീയമായ ആശയവിനിമയ ലിങ്ക് ആവശ്യമാണ് ഡാറ്റയും പ്രധാന കമ്പ്യൂട്ടറും തൽക്ഷണം അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രാദേശിക ഡാറ്റാബേസ് ഉള്ളപ്പോൾ മറ്റ് ഓപ്ഷൻ ആശയവിനിമയ ലിങ്ക് അത്ര വിശ്വസനീയമായി ആയിരിക്കില്ല കാരണം പ്രധാന ഓഫീസിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുകയും ഈ വ്യത്യസ്ത പരിഹാരങ്ങളുടെ വിലയും പ്രോജക്റ്റ് മാനേജർ പ്രവർത്തിക്കുകയും തുടർന്ന് കോൾ ഫീൽഡ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ചർച്ച ചെയ്യുകയും അവർക്ക് അനുയോജ്യമായ ഓപ്ഷൻ എന്താണെന്നും ബജറ്റ് എന്താണെന്നും ഓരോന്നിനും എന്താണ് വില ലഭ്യമായ ബജറ്റ് എന്നിവ അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർ മുന്നോട്ടു പോകുന്നു തീരുമാനമില്ല അതിനാൽ ഞാൻ സോഫ്റ്റ്വെയറിലെ പ്രധാന ആവശ്യകതകൾ എന്തൊക്കെയാണെന്നും ആവശ്യമുള്ള പ്രവർത്തനക്ഷമത പരിഹരിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന ഇതര പരിഹാരങ്ങൾ എന്താണെന്നും ഓരോ നിറം എന്താണ് ചെലവ് എന്ന പ്രൊജക്ട് മാനേജർ മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ സാധാരണ ക്രമമാണിത് ഈ ഇതര പ്രവർത്തനങ്ങളിൽ ഈ ഇതര പരിഹാരങ്ങളിൽ ഏറ്റവും മികച്ചപരിഹാരം എന്താണ് സാമ്പത്തികമായി പ്രായോഗികമാണോ സാങ്കേതികമായി പ്രായോഗികമാണോ ഷെഡ്യൂൾ തിരിച്ചുള്ള പ്രായോഗികമാണോ എന്നതിനെ അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർ നിർണ്ണയിക്കുന്നു പ്രോജക്ട് മാനേജർ ആദ്യം പ്രശ്നത്തെക്കുറിച്ച് ഒരു സമഗ്രമായ കാരണം വികസിപ്പിക്കുകയും വ്യത്യസ്ത പരിഹാരങ്ങൾ രൂപപ്പെടുത്തുകയും ആവശ്യമായ വിഭവം വികസന ചെലവ് വികസന സമയം എന്നിവ കണക്കിലെടുത്ത് ഇതര പരിഹാരങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് രൂപീകരിക്കുകയും ഇതിനെ അടിസ്ഥാനമാക്കി പ്രോജക്ട് മാനേജർ പ്രോജക്ട് നടപ്പിലാക്കുന്നത് സാധ്യമാണെന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഉയർന്ന ചെലവ് ആവശ്യകത പരിമിതികൾ സാങ്കേതിക കാരണങ്ങൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാരണം എന്നിവ കാരണം ഇത് അസാധ്യമാണെന്ന് കണ്ടെത്തുന്നു സാധ്യത പഠനത്തിലെ പ്രധാന പ്രവർത്തനമാണ് കോസ്ററ് ബെനിഫിറ്റ് വിശകലനം പ്രോജക്റ്റ് മാനേജർ എല്ലാ ചെലവുകളും തിരിച്ചറിയേണ്ടതുണ്ട് വികസന ചെലവ് സജ്ജീകരണം ചെലവ് പ്രവർത്തനച്ചെലവ് എന്നിവയും ഒപ്പം ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചറിയുന്നത് ചെലവ് ആകാം ഉദാഹരണത്തിന് ആനുകൂല്യം അത് കമ്പനിക്ക് ലഭിക്കുന്ന സാമ്പത്തിക ബജറ്റ് മാത്രമല്ല എങ്ങനെ വീണ്ടും ഉപയോഗയോഗ്യമായ യ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് അനുഭവവും മറ്റും ആയിരിക്കാം ചെലവ് ആനുകൂല്യ വിശകലനത്തിൻറെ അവസാനം പ്രോജക്ട് തുടരുന്നതിനുള്ള ചെലവുകളെകാൾ ആനുകൂല്യങ്ങൾ വലുതാണോ എന്ന് പ്രോജക്റ്റ് മാനേജർ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ ആനുകൂല്യങ്ങൾ ചെലവുകളെകാൾ കൂടുതലാണെന്ന് ഞാൻ ഇവിടെ ചിത്രീകരിച്ചത് ഇതാണ് തുടർന്ന് പദ്ധതി ഏറ്റെടുക്കുന്നു ചെലവ് വികസനം ഓപ്പറേഷൻ സജീകരണം തുടങ്ങിയവയും ചിലത് ആനുകൂല്യങ്ങൾ ഉപഭോക്താവ് എത്രമാത്രം പണം അടയ്ക്കാൻ തയ്യാറാണ് എന്നതുപോലുള്ള അളക്കാവുന്ന ആനുകൂല്യങ്ങളും ആണ് എന്നാൽ അനുഭവം പുനരുപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ മുതലായവ അളവ് എടുക്കാനാവത്ത ആനുകൂല്യങ്ങളുണ്ട് പ്രോജക്റ്റ് മാനേജരുടെ ഒരു പ്രധാന പ്രവർത്തനമാണ് ബിസിനസ് കേസ് എഴുതുക ബിസിനസ് കേസ് എഴുതുന്നതിനുള്ള പ്രാരംഭ പ്രക്രിയകൾ ഒന്നാണിതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു സാധ്യത പഠനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബിസിനസ് എഴുതാൻ എങ്ങനെ സഹായിക്കുന്നു ഇവിടെ പ്രോജക്റ്റ് മാനേജർ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം നൽകുകയുംപ്രോജക്റ്റിനെ പ്രയോജനം ചെലവ് കവിയുകയും ബിസിനസ് അപകടസാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്നു ബിസിനസ് കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ആണ് ഒരു ബിസിനസ് കേസ് എഴുതുക എന്നത് ഒരു സുപ്രധാന പ്രോജക്ട് മാനേജ്മെൻറ് പ്രക്രിയയാണ് ഒരു പ്രോജക്ട് മാനേജർ ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് കേസ് എഴുതേണ്ടത് ഉണ്ട് ഇവിടെ ഒരു ബിസിനസ് കേസ് എഴുതുന്നതിന് ആവശ്യമുള്ളത് പ്രോജക്ട് പശ്ചാത്തലം പ്രോജക്ട് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തു നഷ്ടപ്പെടും എന്തൊക്കെയാണ് എന്നതിൻറെ എക്സിക്യൂട്ടീവ് സംഗ്രഹം ആവശ്യമാണ് പ്രോജക്ട് പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ചെലവുകൾ ആനുകൂല്യങ്ങൾ അപകടസാധ്യതകൾ എന്തൊക്കെയാണ് ഈ അപകട സാധ്യതകൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും ബിസിനസ് കേസ് മികച്ച മാനേജ്മെൻറ് സമർപ്പിക്കുന്നു ഇത് അവർക്ക് പ്രൊജക്റ്റിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അവലോകനം നൽകുന്നു ഇത് കമ്പനിയെ എങ്ങനെ സഹായിക്കും ചെലവുകളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെയുള്ള അപകടസാധ്യതകൾ എന്തൊക്കെയാണ് റിസ്ക് മാനേജ്മെൻറ് പദ്ധതികൾ എന്തൊക്കെയാണ് ഇത് ഒരു പ്രധാന പ്രോജക്ട് ഓർഗനൈസേഷൻ പ്രക്രിയയ്ക്ക് രൂപം നൽകുന്നു ഈ ചർച്ചയിലൂടെ നമ്മളിവിടെ നിർത്തി അടുത്ത് പ്രഭാഷണത്തിൽ തുടരും